തിരിച്ച് സ്വാഗതം ഇത് ലെക്ച്ചർ നമ്പർ 46 ആണ് ഇന്ന് നമ്മൾ ഐഗൺവാല്യൂകളും ഐഗൺവെക്ടറുകളും തുടരും ലീനിയർ ആൾജിബ്രയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം അതിനാൽ ഈ ഐഗൻവാല്യൂകൾ ഐഗൺവെക്റ്ററുകൾ എന്നിവയും അവയുടെ ജ്യാമിതീയ വ്യാഖ്യാനവും തുടർന്ന് ഐഗൺ വാല്യൂകളും ഐഗൺവെക്റ്ററുകളും വിലയിരുത്തുന്നതിനുള്ള ചില ലളിതമായ ഉദാഹരണങ്ങളിലൂടെയും നമ്മൾ കടന്നുപോകും ഇവിടെ ഒരു മാട്രിക്സിന്റെ ഐഗൺ വാല്യൂകളും ഐഗൺവെക്റ്ററുകളും എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് ഈ ലളിതമായ മാട്രിക്സ് പരിഗണിക്കാം പിന്നെ ഈ രണ്ട് വെക്റ്ററുകളും പരിഗണിക്കുന്നു കൂടാതെ ഇവിടെ Au എന്ന പ്രോഡക്ട് കണക്കുകൂട്ടുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഈ A ഉണ്ട് തുടർന്ന് നമ്മൾക്ക് ഈ u ഉണ്ട്

ഈ വെക്റ്റർ v ഉപയോഗിച്ച് നമ്മൾ ഈ പ്രോഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും എയ്ഗെൻവാല്യൂവുകളിലേക്കും ഐഗൺവെക്റ്ററുകളിലേക്കുമുള്ള ഈ ആമുഖത്തിലേക്ക് നമ്മെ നയിക്കുന്ന പോയിന്റ് അതാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ജ്യാമിതീയമായി നോക്കിയാൽ ഇവിടെ നമുക്ക് ഈ x അക്ഷവും y അക്ഷവും ഉണ്ട് അതിനാൽ ഈ വെക്റ്റർ v കൃത്യമായി ഇവിടെ കൊടുത്തിരിക്കുന്നു തുടർന്ന് ഈ ഗുണനത്തിന് ശേഷം അവ 2 തവണ മാത്രമാണ് അതിനാൽ ഈ v ന്റെ ഈ നീളത്തിന്റെ ഇരട്ടി വീതി നീളമുള്ള വെക്റ്ററാണ് നമ്മൾക്ക് ഈ വെക്റ്റർ Av ഉണ്ട് ഈ Av യും v യും ഒരേ ദിശയിലുള്ളവയാണെന്നതും അവയുടെ വ്യാപ്തി വ്യത്യസ്തമാണെന്നതും രസകരമാണ് അതിനാൽ ഇവിടെ ഇപ്പോൾ ഗുണനത്തിനു ശേഷം ഈ നേരത്തെയുള്ള വെക്റ്റർ v യുടെ ഇരട്ടിയാണ് എന്നാൽ ഈ u വെക്റ്ററിന്റെ ഈ സാഹചര്യത്തിൽ ഇത് A ടൈംസ് u ആയി മാറി അതിനാൽ ഗുണനത്തിനുശേഷം വെക്റ്റർ ദിശ അതേപടി തുടരുന്നു എന്ന റിലേഷൻ നമുക്ക് ഇല്ല നമ്മൾക്ക് ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു വെക്റ്റർ Au ആണുള്ളത് അതിനാൽ നമ്മളുടെ താൽപ്പര്യം ഈ A യോടൊപ്പമുള്ള അത്തരം u കളോടല്ല നമ്മളുടെ താൽപ്പര്യം അത്തരം വെക്റ്ററുകളോടാണ് ആ മാട്രിക്സിന്റെ ഗുണനം അതിന്റെ ദിശ മാറ്റുന്നില്ല അതിന്റെ യഥാർത്ഥ വെക്റ്ററിന് സമാന്തരമാണ് കൂടാതെ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ തിരയുന്ന ഐഗൺവെക്ടറുകൾ എന്നും ഇവിടെ വന്ന ഈ സംഖ്യയെ ഐഗൺ വാല്യൂകൾ എന്നും വിളിക്കും അതിനാൽ ഇന്നത്തെ ലെക്ച്ചർന്റെ വിഷയം ഇതാണ് ഈ ഐഗൻ വാല്യൂകൾയും ഐഗൺവെക്റ്ററുകളെയും കുറിച്ച് നമ്മൾ ഇപ്പോൾ കൂടുതൽ വിശദമായി സംസാരിക്കും അതിനാൽ ഗണിതശാസ്ത്രപരമായ ഔപചാരിക നിർവചനം ഇവിടെ നിർവ്വചിക്കുന്നു A എന്നത് ഏതെങ്കിലും സ്ക്വയർ മാട്രിക്സ് ആകട്ടെ എൻട്രികൾ റിയൽ നമ്പറുകൾ ആവാം അല്ലെങ്കിൽ മാട്രിക്സ് A യുടെ എൻട്രികൾ കോംപ്ലക്സ് നമ്പറുകൾ ആവാം തുടർന്ന് എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നോൺസീറോ വെക്റ്റർ x ഉണ്ടെങ്കിൽ എന്ന സ്കേലറിനെ A യുടെ ഐഗൺ വാല്യൂ എന്ന് വിളിക്കുന്നു അതെ ഈ നോൺസീറോയും ഇവിടെ പ്രധാനമാണ് ഇത് മുൻ ഉദാഹരണങ്ങളിൽ നമ്മൾ കണ്ടതിന് സമാന്തരമാണ് അതിനാൽ നമുക്ക് അത്തരമൊരു വെക്റ്റർ x ഉണ്ടെങ്കിൽ ഈ നൽകിയ മാട്രിക്സ് A ഉപയോഗിച്ച് x ഗുണിക്കുന്നത് ലാംഡ ടൈം x ന് തുല്യമാണ് ഈ ലാംഡ എന്നിവ ചില റിയൽ സംഖ്യകളോ കോംപ്ലക്സ് സംഖ്യകളോ ആണ് അതിനാൽ ഈ Ax λx എന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമവാക്യമാണ് ഐഗൺവെക്റ്ററിന്റെ നിർവചനം അതാണ് ഈ x നെ ഐഗൺവെക്ടർ എന്നും ഈ ലാംഡയെ ഐഗൺവാല്യൂ എന്നും വിളിക്കുന്നു ഐഗൺവെക്ടർ എല്ലായ്പ്പോഴും നോൺസീറോ ആയിരിക്കണം അല്ലാത്തപക്ഷം 0 എപ്പോഴും തൃപ്തിപ്പെടും അതിനാൽ നമ്മൾ ഇവിടെ നോൺസീറോ വെക്റ്റർ തിരയുകയാണ് x നെ ഐഗൺവെക്ടർ എന്ന് വിളിക്കുന്നു λ നെ ഐഗൺവാല്യൂ എന്ന് വിളിക്കുന്നു അതിനാൽ വെക്റ്റർ x ആണ് ഈ ഐഗൻവാല്യൂ ലാംബഡയുമായി ബന്ധപ്പെട്ട ഐഗൺവെക്റ്റർ ഇപ്പോൾ രണ്ട് പ്രധാന പോയിന്റുകൾ ജ്യാമിതീയമായി ഒരു മാട്രിക്സ് എയുടെ ഐഗൺവെക്റ്റർ x ൽ നിന്നുള്ള ഒരു നോൺസീറോ വെക്റ്റർ ആണെന്ന് മുൻ ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമ്മൾ ഇതിനകം കണ്ടിട്ടുണ്ട് ഇവിടെയുള്ള വെക്റ്റർ x ഉം ഈ Ax ഉം സമാന്തരമാണ് വെക്റ്റർ v യും വെക്റ്റർ Av ഉം സമാന്തരമായിരുന്നു പക്ഷേ അവയുടെ ദൈർഘ്യം വ്യത്യസ്തമായിരുന്നു എന്നതാണ് മുൻ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടത് അതിനാൽ ഇവിടെയും ഈ ഐഗൺവെക്റ്ററിന്റെ ജ്യാമിതീയ അർത്ഥം ഈ വെക്റ്റർ ഈ x ഈ Ax എന്നിവ രണ്ടും സമാന്തരമാണ് അവയുടെ വ്യാപ്തി മാറും ഈ ഐഗൻവാല്യൂ ലാംബഡ നമുക്കുണ്ട് ബീജഗണിതത്തിൽ ഒരു ഐഗൺവെക്ടർ x എന്നത് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ് കാരണം നമ്മൾ നോക്കുന്നത് ഐഗൻവെക്റ്റർ x ആണ് ട്രിവിയൽ സൊല്യൂഷൻ അർത്ഥമാക്കുന്നത് x0 എന്നത് ഈ സമവാക്യം എപ്പോഴും തൃപ്തിപ്പെടും എന്നതുകൊണ്ടാണ് അതിനാൽ 0 സൊല്യൂഷൻൽ നമ്മൾക്ക് താൽപ്പര്യമില്ല നോൺസീറോ സൊല്യൂഷൻൽ നമ്മൾക്ക് താൽപ്പര്യമുണ്ട് അതായത് എന്ന ഈ സമവാക്യത്തിന്റെ നോൺ ട്രിവിയൽ സൊല്യൂഷൻൽ അല്ലെങ്കിൽ ഇവിടെ ഈ ഐഗൺവെക്റ്റർ x ഈ യുടെ നൾ സ്പേസിലെ ഒരു നോൺസീറോ വെക്റ്ററാണ് കാരണം നമുക്ക് ഈ സമവാക്യം ലെ ഈ λx പദം ഇടത് വശത്തേക്ക് കൊണ്ടുവരാൻ കഴിയും അതിനാൽ നമ്മൾക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഐഡന്റിറ്റി മാട്രിക്സും അവതരിപ്പിക്കേണ്ടതുണ്ട് തുടർന്ന് എന്നാകുന്നു അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ തിരയുന്നത് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ് അതായത് ഈ എന്ന ലീനിയർ സമവാക്യ സിസ്റ്റത്തിന്റെ ഈ സൊലൂഷൻ x ഇത് കൃത്യമായി ഈ യുടെ നൾ സ്പേസിന്റെ നിർവചനമാണ് അതിനാൽ ഇവിടെ മാട്രിക്സ് ആണ് ഈ A λI യുടെ നൾ സ്പേസ് നോക്കിയാൽ നമ്മൾ തിരയുന്ന ഈ വെക്റ്റർ x ഈ മാട്രിക്സ് യുടെ നൾ സ്പേസിലാണ് കൂടാതെ ഇത് ഒരു നോൺസീറോ ആയതിനാൽ ഞാൻ അർത്ഥമാക്കുന്നത് നൾ സ്പേസിൽ ഇപ്പോൾ ഒരു 0 വെക്റ്റർ ഉണ്ട് എന്നാൽ ഇതിന്റെ നൾ സ്പേസിൽ നമ്മൾ ഒരു നോൺസീറോ വെക്റ്ററിനെ തിരയുന്നു ഈ A λI യുടെ നൾ സ്പേസിൽ ഒരു നോൺസീറോ വെക്റ്ററാണ് x ഇപ്പോൾ സ്വാഭാവിക ചോദ്യം ഈ ഐഗൺവെക്റ്റർ എങ്ങനെ കണക്കുകൂട്ടാം n ഓർഡർന്റെ മാട്രിക്സുമായി ബന്ധപ്പെട്ട ഐഗൺ വാല്യൂകൾ എങ്ങനെ കണക്കുകൂട്ടാം എന്നതാണ് അതിനാൽ ഐഗൺ വാല്യൂകളും ഐഗൺവെക്ടറുകളും എങ്ങനെ കണ്ടെത്താം എന്നത് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യും അതിനായി ഈ സമവാക്യം പരിഗണിക്കുക അതായത് ഈ ഫോമിൽ എഴുതിയ Ax λx സമവാക്യം കൂടാതെ ഇവിടെ രണ്ട് അൺനോൺ കളുണ്ട് നമുക്ക് ലാംഡ കണക്കാക്കേണ്ടതുണ്ട് കൂടാതെ നമുക്ക് x കണക്കാക്കേണ്ടതുണ്ട് അവ രണ്ടും അൺനോൺ കളാണ് ഇവിടെ ഒരു സമവാക്യമുണ്ട് അല്ലെങ്കിൽ ഇത് രേഖീയ സമവാക്യത്തിന്റെ ഒരു സിസ്റ്റം ആണ് കൂടാതെ നമുക്ക് ഈ രണ്ട് അൺനോൺ കളും ഉണ്ട് x ഈ രണ്ട് അൺനോൺ കൾ എങ്ങനെ കണക്കുകൂട്ടാം ഈ സമവാക്യം യെ തൃപ്തിപ്പെടുത്തുന്ന അൺനോൺ കൾ എങ്ങനെ കണക്കുകൂട്ടാം ലാംഡ ഒരു സ്കെയിലർ ആണ് ഈ x ഒരു വെക്റ്ററാണ് മാംട്രിക്സ് n ക്രോസ് n മാട്രിക്സ് ആണെങ്കിൽ x ന് കൃത്യമായി n ഘടകങ്ങൾ ഉണ്ടായിരിക്കും നോൺ ട്രിവിയൽ സൊല്യൂഷൻ x നായി നമ്മൾ തിരയുന്ന മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ സമവാക്യത്തിന് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കുമെന്ന് മുമ്പത്തെ ലെക്ച്ചർൽ നമ്മൾ ഇതിനകം പഠിച്ചതാണ് ഇത് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ മാത്രം യുടെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ നമുക്ക് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ സൊല്യൂഷൻ ഉണ്ടാകും ഡിറ്റർമിനന്റ് 0 ന് തുല്യമല്ലെങ്കിൽ ഒരു യൂനിക് സൊല്യൂഷൻമുണ്ടാകും അത് ട്രിവിയൽ സൊല്യൂഷൻമായിരിക്കും അതായത് x 0 ആയിരിക്കും പക്ഷേ ഈ സമവാക്യം ന്റെ ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻണ് നമ്മൾ തിരയുന്നത് ഈ സാഹചര്യത്തിൽ ഈ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഇത് 0 ആയിരിക്കണം എന്ന നിബന്ധനയുണ്ട് അതിനാൽ സൊല്യൂഷൻലേക്ക് നയിക്കുന്ന മറ്റൊരു കണ്ടീഷൻ അതായത് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കണം എന്ന് നമ്മൾക്ക് ലഭിച്ചു അതിനാൽ ഈ ഡിറ്റർമിനന്റ് വികസിപ്പിക്കുമ്പോൾ അൺനോൺ ആണ് A നൽകിയിരിക്കുന്ന മാട്രിക്സ് ആണ് I ഐഡന്റിറ്റി മാട്രിക്സ് ആണ് അതിനാൽ ഈ എന്നത് എന്ന ഒരു പോളിനോമിയൽ സമവാക്യം ആണ് ഇതിൽ ഇവ കോയിഫിഷെന്റുകളാണ് ഈ A നൽകുമ്പോൾ അവ സ്വാഭാവികമായും നൽകപ്പെടും അതിനാൽ നമ്മൾക്ക് ഈ പോളിനോമിയൽ സമവാക്യം ഉണ്ട് തുടർന്ന് ഈ സമവാക്യം പരിഹരിച്ചാൽ നമുക്ക് ഈ സമവാക്യത്തിന് n റൂട്ടുകൾ ലഭിക്കും അതായത് λ ന്റെ n വാല്യൂകൾ അവ വ്യത്യസ്തമായിരിക്കാം അവ വ്യത്യസ്തമല്ലാതെരിക്കാം അവ റിയൽ ആയിരിക്കാം അല്ലാതിരിക്കാം അങ്ങനെ എന്തായാലും ഈ സമവാക്യത്തിന്റെ സൊല്യൂഷൻനെ ക്യാരക്ടറിസ്റ്റിക് സമവാക്യം എന്ന് വിളിക്കുന്നു അതിനാൽ ഈ സമവാക്യത്തെ മാട്രിക്സ് A യുടെ ക്യാരക്ടറിസ്റ്റിക് സമവാക്യം എന്ന് വിളിക്കുന്നു ഈ സമവാക്യം പരിഹരിച്ചതിന് ശേഷം നമുക്ക് സാധ്യമായ ലാംബാഡകൾ ലഭിക്കും ഇവിടെ ഓരോ ലംബഡയ്ക്കും നമുക്ക് ഈ ന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും ഡിറ്റർമിനന്റ് 0 ആണെന്ന കണ്ടീഷനിൽ നിന്നാണ് നമ്മുടെ ലാംബഡ ലഭിച്ചതെന്ന് ശ്രദ്ധിക്കുക അതിനാൽ സ്വാഭാവികമായും നമുക്ക് ഈ ന്റെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ലഭിക്കും കാരണം ഈ ഡിറ്റർമിനന്റ് 0 അല്ലാത്തപ്പോൾ സൊല്യൂഷൻ ലഭിക്കും പക്ഷേ നമുക്ക് നമ്മുടെ ലാംബഡ ലഭിച്ചത് ഡിറ്റർമിനന്റ് 0 ആണെന്നതിൽ നിന്നാണ് അതിനാൽ ഈ ലാംബാഡകൾക്കായി ന്റെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ നമുക്ക് ലഭിക്കും ഇവിടെ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻന്റെ റൂട്ട്കളെ കൃത്യമായി ഐഗൺ വാല്യൂ എന്ന് വിളിക്കുന്നു കാരണം ഈ ലാംബഡ ഐഗൺ വാല്യൂ ആണ് അതിനാൽ ഈ ക്യാരക്ടറിസ്റ്റിക് സമവാക്യം പരിഹരിച്ചുകഴിഞ്ഞാൽ നമുക്ക് A യുടെ എല്ലാ ഐഗൻ വാല്യൂകളും ലഭിക്കുന്നു അതോടൊപ്പം ഈ എന്ന ഹോമോജീനിയസ് ലീനിയർ സമവാക്യങ്ങളുടെ സിസ്റ്റം പരിഹരിക്കുന്നതിലൂടെ നമുക്ക് A യുടെ ഐഗൺവെക്റ്ററുകളും നിർണ്ണയിക്കാനാകും അതിനാൽ ഹോമോജീനിയസ് ലീനിയർ സമവാക്യങ്ങളുടെ സിസ്റ്റം നമ്മൾ വീണ്ടും പരിഹരിക്കേണ്ടതുണ്ട് ലീനിയർ അൽജിബ്രയിലെ ഈ ലെക്ച്ചർകളുടെ തുടക്കം മുതൽ ഞാൻ ഈ ലീനിയർ സമവാക്യങ്ങളുടെ സമവാക്യങ്ങളുടെ സിസ്റ്റം പരിഹരിക്കുന്നത് വീണ്ടും വീണ്ടും ഊന്നിപ്പറയുന്നുണ്ട് കാരണം പല ഘട്ടത്തിലും നമ്മൾ ലീനിയർ സമവാക്യങ്ങളുടെ സിസ്റ്റം പരിഹരിക്കേണ്ടത് ആയി വരുന്നു അതിനാൽ ഈ ലാംബഡയുടെ ഓരോ മൂല്യത്തിനും സമവാക്യങ്ങളുടെ സിസ്റ്റം പരിഹരിക്കേണ്ടത് ഇപ്പോൾ വളരെ പ്രധാനമാണ് അതിനാൽ ഉദാഹരണത്തിന് നമുക്ക് 3 വ്യത്യസ്ത ലാംഡകൾ ഉണ്ടെങ്കിൽ ഓരോ ലാംഡയ്ക്കും അനുബന്ധമായി അതായത് 3 തവണ നമ്മൾ ലീനിയർ സമവാക്യങ്ങളുടെ സിസ്റ്റം പരിഹരിക്കേണ്ടതുണ്ട് അവ വ്യത്യസ്ത സമവാക്യങ്ങളായിരിക്കും കാരണം നമ്മൾക്ക് വ്യത്യസ്ത ലാംഡ ഉണ്ട് ഈ മാട്രിക്സ് വ്യത്യസ്തമായിരിക്കും നമുക്ക് വ്യത്യസ്ത ഐഗൺവെക്ടറുകൾ ലഭിക്കും നമ്മൾ ഇപ്പോൾ ഇതിനെക്കുറിച്ചും ഈ യുടെ നൾ സ്പേസിനെക്കുറിച്ചും കൂടുതൽ സംസാരിക്കും നൾ സ്പേസിൽ 0 ഉം ഉൾപ്പെടുന്നു ഇവിടെയുള്ള നൾ സ്പേസിനെ ഐഗൺ വാല്യൂ യ്ക്ക് അനുയോജ്യമായ A യുടെ ഐഗൺ സ്പേസ് എന്ന് വിളിക്കുന്നു അപ്പോൾ നൾ സ്പേസ് എന്താണ് നൾ സ്പേസ് എല്ലാ ഐഗൺ വെക്ടറുകളും ഉം 0 വെക്റ്ററും വഹിക്കുന്നു ഇവിടെ ഐഗൺസ്പേസ് എന്നും അറിയപ്പെടുന്ന നൾ സ്പേസ് 0 വെക്റ്റർ ഉൾപ്പെടെ എല്ലാ ഐഗൺവെക്ടറുകളും അടങ്ങിയിരിക്കുന്നു കാരണം 0 സ്വാഭാവികമായും ഈ എന്നതിന്റെ നൾ സ്പേസ്ൽ ഉണ്ടാകും പക്ഷേ 0 ഐഗൺവെക്റ്റർ അല്ല കാരണം ഐഗൺവെക്റ്റർനെ നമ്മൾ നിർവചിക്കുന്നത് ഈ സമവാക്യത്തിന്റെ ഒരു നോൺസീറോ നോൺ ട്രിവിയൽ സൊല്യൂഷൻ x എന്നാണ് ഇവിടെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാവുന്ന മറ്റൊരു പദമാണ് ഐഗൺസ്പേസ് അതിനാൽ ഐഗൺസ്പേസ് ഒന്നുമല്ല 0 വെക്റ്റർ ഉൾപ്പെടെ ഈ ഐഗൺവെക്ടറുകളുടെ സെറ്റാണ് അതിനാൽ നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലത്തിലൂടെ കടന്നുപോകാം പ്രോബ്ലം നമ്പർ 1 അത് ഈ മാട്രിക്സ് ന്റെ ഐഗൺ വാല്യൂകളും ഐഗൺവെക്റ്ററുകളും കണ്ടെത്തുക എന്നതാണ് ഈ ഐഗൻ വാല്യൂകളുടെയും ഐഗൺവെക്റ്ററുകളുടെയും മൂല്യനിർണ്ണയത്തോടെ നമ്മൾ ആരംഭിക്കുന്ന വളരെ ലളിതമായ ഉദാഹരണമാണിത് അതിനാൽ ഇവിടെ ആദ്യം നമ്മൾ ക്യാരക്ടർസ്റ്റിക്സ് സമവാക്യം എഴുതണം എയ്ഗിൻവാല്യൂകൾ കണ്ടെത്തുന്നതിന് എല്ലായ്പ്പോഴും ക്യാരക്ടർസ്റ്റിക്സ് സമവാക്യം പരിഹരിക്കേണ്ടതുണ്ട് പിന്നെ ഓരോ ക്യാരക്ടർസ്റ്റിക്സ് വാല്യൂവിനും അല്ലെങ്കിൽ ഓരോ ഐഗൻവാല്യൂവിനും നമ്മൾ ആ സമവാക്യ സിസ്റ്റം പരിഹരിക്കേണ്ടതുണ്ട് ആ രീതിയിൽ ഐഗൺവെക്റ്ററുകൾ ലഭിക്കും അതിനാൽ ഇവിടെ ക്യാരക്ടർസ്റ്റിക്സ് സമവാക്യം ഈ ന്റെ ഡിറ്റർമിനന്റ് 0 എന്നതാണ് അതിനർത്ഥം ഐഗൺ വാല്യൂകൾ എന്ന ഈ ക്യാരക്ടർസ്റ്റിക്സ് സമവാക്യത്തിന്റെ സൊല്യൂഷൻണ് നമ്മൾക്ക് എന്ന മാട്രിക്സ് ഉണ്ട് എന്നിട്ട് നമുക്ക് ഈ ഉണ്ട് അവസാനം യുടെ ഡിറ്റർമിനന്റ് എടുക്കുന്നു ഇവിടെ എന്നാൽ അതായത് ലാംഡയുടെയും ഐഡന്റിറ്റി മാട്രിക്സിന്റെയും പ്രോഡക്റ്റ് ഇപ്പോൾ നമുക്ക് പരിഹരിക്കാൻ ഉള്ളത് എന്നതാണ് അപ്പോൾ മാട്രിക്സ് എന്താണ് ഇവിടെയുള്ള മാട്രിക്സ് 2 മൈനസ് ലാംബഡയാണ് അതിനുശേഷം നമുക്ക് ഇവിടെ 1 ഉണ്ട് ഇവിടെ നമുക്ക് 4 ഉം തുടർന്ന് മൈനസ് 1 ഉം മൈനസ് ലാംഡയും ആണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ഡിറ്റർമിനന്റ് എപ്പോഴും നേരിട്ട് എഴുതാൻ കഴിയുന്ന ഒന്നാണ് അതിനാൽ നമുക്ക് നൽകിയ മാട്രിക്സ് അവയിൽ ഇന്ന് ക്യാരക്ടർസ്റ്റിക് സമവാക്യം എങ്ങനെ എഴുതാം യെ ഡയഗണലിൽ നിന്ന് കുറയ്ക്കുന്ന ഈ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുത്ത് അത് അത് അത് സീറോക്ക് തുല്യംഎന്ന് എഴുതുക അതിനാൽ ഇതാണ് നമ്മളുടെ ക്യാരക്ടർസ്റ്റിക് സമവാക്യം ഇത് പരിഹരിച്ചാൽ നമുക്ക് എന്നിവ ലഭിക്കുന്നു അതായത് അതിന്റെ റൂട്ടുകൾ എന്നിവ യാണ് ഐഗൻ വാല്യൂകൾ കാരണം ഇത് ഈ സമവാക്യത്തിന്റെ സൊല്യൂഷൻണ് ഇനി ഇവിടെ ഓരോന്നിനും യോജിക്കുന്ന ഐഗൺവെക്റ്റർ കണ്ടുപിടിക്കേണ്ടത് ഉണ്ട് അതിനാൽ ആദ്യം നമുക്ക് ഇത് ഇത് എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ സമവാക്യം രൂപപ്പെടുത്തുന്നു അത് സമവാക്യങ്ങളുടെ ഒരു സിസ്റ്റം ആയിരിക്കും അതിനുവേണ്ടി നമ്മൾ 3 ഡയഗണൽ എൻട്രികളിൽ നിന്ന് കുറയ്ക്കണം അതാണ് ഇവിടെ നമ്മളുടെ മാട്രിക്സ് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ന് എഴുതാം പരിഹരിക്കുന്നതിൽഊടെ ലഭിക്കുന്നു അതുപോലെ അതിന് അനുബന്ധമായി ഉള്ള സിസ്റ്റം പരിഹരിക്കുന്നതിലൂടെ എന്ന വെക്ടറൂം ലഭിക്കുന്നു ഇവിടെയുള്ള മറ്റൊരു ഉദാഹരണം യുടെ ഐഗെൻ വാല്യൂകളും A യുടെ ഐഗൺവെക്റ്ററുകളും കണ്ടെത്തുക വളരെ ലളിതമായ ഒരു മാട്രിക്സ് നമ്മൾ വീണ്ടും പ്രദർശിപ്പിക്കാൻ എടുത്തതാണ് നമ്മൾ ക്യാരക്ടർസ്റ്റിക്സ് സമവാക്യം എഴുതുകയാണെങ്കിൽ അത് | A λI |0 ആയിരിക്കും അതായത് ഡയഗണൽ എൻട്രികളിൽ നിന്ന് നമ്മൾ ഇവിടെ കുറയ്ക്കും ശേഷം ഡിറ്റർമിനന്റ് 0 എഴുതികിട്ടുന്ന സമവാക്യം പരിഹരിക്കുമ്പോൾ എന്നിങ്ങനെ റൂട്ടുകൾ ലഭിക്കുന്നു ഇവ ആവർത്തിച്ചുള്ള റൂട്ടിന്റെ കേസ് ആണ് നമ്മൾക്ക് 1 എന്ന ഈ ഒരേയൊരു മൂല്യമേയുള്ളൂ അത് 2 തവണ ആവർത്തിക്കപ്പെടുന്നു ഇപ്പോൾ ഈ ഐഗൻവാല്യൂവുമായി പൊരുത്തപ്പെടുന്ന ഐഗൺവെക്റ്റർ കണക്കാക്കേണ്ടതുണ്ട് അതിനായി എന്ന സമവാക്യസിസ്റ്റം രൂപപ്പെടുത്താം ഇവ പരിഹരിക്കുന്നതിലൂടെ ഐഗൺവെക്റ്റർകൾ ലഭിക്കുന്നു ലാംഡ ഇവിടെ 1 ആണ് അതിനാൽ ഈ സമവാക്യ സംവിധാനം നമ്മൾ ഇപ്പോൾ പരിഹരിക്കേണ്ടതുണ്ട് ഇപ്പോൾ സിസ്റ്റം എന്താണ് A Ix 0 അതിനാൽ നമ്മളുടെ മാട്രിക്സ് ഇപ്പോൾ 0 ഉം 1 ഉം 0 ആയിരിക്കും തുടർന്ന് ഇവിടെയും ഈ 0 ആണ് നമ്മുടെ സമവാക്യം x 1 0T അതിനാൽ ഇത് ഇതിനകം റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോമാണ് നമ്മൾക്ക് ഇവിടെ ഈ പിവറ്റ് ഘടകം ഉണ്ട് അതായത് ഈ ഒരു ഫ്രീ വേരിയബിൾ അല്ല എന്നാൽ ഇവിടെ ഈ ഫ്രീ വേരിയബിൾ ആണ് കാരണം ആദ്യ നിരയ്ക്ക് ഒരു പിവറ്റ് ഘടകം ഇല്ല അതിനാൽ ഈ ഫ്രീ വേരിയബിൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് മൂല്യവും നൽകാം അതിനാൽ ഈ ന് നമ്മൾ ചില ആൽഫകൾ നിയോഗിക്കുന്നു കൂടാതെ 0 എന്ന് ആദ്യ സമവാക്യത്തിൽ നിന്ന് ഇതിനകം നൽകിയിട്ടുള്ളതാണ് അതിനാൽ ഈ ആൽഫയെ ആശ്രയിക്കുന്നില്ല എല്ലായ്പ്പോഴും 0 ആണ് ആൽഫ എന്തായിരുന്നാലും നമുക്ക് ഇപ്പോൾ ആൽഫ ഏതു മൂല്യവും എടുക്കാനുള്ള ഉള്ള സ്വാതന്ത്ര്യമാണ് അതിനാൽ ഈ സമവാക്യ സിസ്റ്റത്തിൻറെ നമ്മളുടെ സൊല്യൂഷൻ ഉം ഉം ആണ് ആൽഫ 1 എന്ന എടുത്താൽ അത് 1 0T ആണ് അതിനാൽ ഈ 1 0T ആണ് സൊല്യൂഷൻനുള്ള ഇവിടത്തെ ജനറേറ്റർ ഇപ്പോൾ നമുക്ക് ഈ 1 0T എന്നത് 1 ന് യോജിക്കുന്ന ഐഗൺവെക്റ്ററുകളിൽ ഒന്നാണ് ഇതിൻറെ ഏതെങ്കിലും ഗുണിതവും ഐഗൺവെക്റ്റർ ആയിരിക്കും ഇവിടെ രണ്ട് വ്യത്യസ്ത ഐഗൺ വാല്യൂകൾ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ കണ്ടു പക്ഷേ നമ്മൾക്ക് ഒരു ഐഗൺവെക്റ്റർ മാത്രമേ ലഭിക്കൂ ഈ ലളിതമായ ഉദാഹരണത്തിന്റെ സഹായത്തോടെ അത് ഇവിടെ കാണാനും സാധ്യമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പിന്നീട് സംസാരിക്കുന്നത് ആയിരിക്കും 1 ന് യോജിക്കുന്ന സാധ്യതകൾ എന്തൊക്കെയാണ് എത്ര ഐഗൺവെക്റ്ററുകൾ സാധ്യമാണെന്നും മറ്റും ഒരു കെയ്ലി ഹാമിൽട്ടൺ സിദ്ധാന്തമുണ്ട് അത് പറയുന്നത് ഓരോ സ്ക്വയർ മാട്രിക്സും അതിന്റേതായ ക്യാരക്ടർസ്റ്റിക്സ് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു അതായത് അത് ക്യാരക്ടർസ്റ്റിക്സ് സമവാക്യത്തിൽ നിന്ന് നേരിട്ട് വരുന്ന മറ്റൊരു ഫലമാണ് ക്യാരക്ടർസ്റ്റിക്സ് സമവാക്യം എന്താണെന്ന് നമുക്കറിയാം ഈ A λI യുടെ ഡിറ്റർമിനന്റ് 0 ക്ക് തുല്യമാണ് എന്ന് എഴുതുന്നതാണ് അത് അർത്ഥമാക്കുന്നത് ഒരു പോളിനോമിയൽ സമവാക്യം ആയിരിക്കും കൂടാതെ ഈ ഫലം പറയുന്നത് അതിൻറെ തെളിവിലൂടെ നമ്മൾ പോകില്ല ഈ മാട്രിക്സ് A തന്നെ ഈ ക്യാരക്ടർസ്റ്റിക്സ് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തും എന്നതാണ് അതിനർത്ഥം എന്നതിന് പകരം നമ്മൾ ഇത് A ഉപയോഗിച്ച് മാറ്റി എഴുതുകയാണെങ്കിൽ എന്ന് ലഭിക്കുന്നു അതിനാൽ ഇവിടെ അങ്ങനെ വരെ പിന്നെ അങ്ങനെ വരെ കോയിഫിഷെന്റുകളും ഇതിലെ എന്നത് A യുടെ അതേ ഓർഡറിൽ ഉള്ള ഐഡന്റിറ്റി മാട്രിക്സ് ആയിരിക്കും അതിനാൽ ഈ കെയ്ലി ഹാമിൽട്ടൺ സിദ്ധാന്തം പറയുന്നത് ഓരോ സ്ക്വയർ മാട്രിക്സും അതിന്റെ ക്യാരക്ടർസ്റ്റിക്സ് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നുവെന്നും അതിനർത്ഥം A യും ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുമെന്നാണ് അതിനാൽ ഇവിടെ ഈ A ഉപയോഗിച്ച് മാറ്റിയെഴുതുന്നു ഇത് സ്ഥിരതയുള്ളതാക്കുന്നു കാരണം ഇപ്പോൾ നമ്മൾ മെട്രിക്സുമായി പ്രവർത്തിക്കുന്നു അതിനാൽ അതേ ക്രമത്തിലുള്ള ഒരു മാട്രിക്സ് ഇവിടെ ഉണ്ടായിരിക്കണം കെയ്ലി ഹാമിൽട്ടൺ സിദ്ധാന്തത്തിന്റെ ഫലം ഉദാഹരണത്തിന് എന്ന് എടുത്ത ഈ ലളിതമായ ഉദാഹരണത്തിനായി നമുക്ക് പരിശോധിക്കാൻ കഴിയും കൂടാതെ ഈ കെയ്ലി ഹാമിൽട്ടൺ സിദ്ധാന്തത്തിലൂടെ ഈ ക്യാരക്ടർസ്റ്റിക്സ് പോളിനോമിയൽ നമ്മൾ പരിശോധിക്കും അതിനാൽ ഈ A യ്ക്ക് അനുബന്ധമായി നമ്മൾ എഴുതേണ്ട ക്യാരക്ടർസ്റ്റിക്സ് സമവാക്യം ഡയഗണൽ എൻട്രികളിൽ നിന്ന് കുറയ്ക്കുന്നതിലൂടെ മാത്രമായിരിക്കും ഇപ്പോൾ നമുക്ക് ഈ ഡിറ്റർമിനന്റ് ഇവിടെ എഴുതാൻ കഴിയും അതിനാൽ നമുക്ക് ഈ സമവാക്യം ലഭിക്കും ഇപ്പോൾ കെയ്ലി ഹാമിൽട്ടൺ സിദ്ധാന്തം പറയുന്നത് ഈ ഇത് വെറും 0 ആയിരിക്കണം എന്നാണ് അതിനാൽ ഇവിടെ വരുന്ന ഈ കണക്കാക്കുകയാണെങ്കിൽ ഇത് ക്യാരക്ടർറസ്റ്റ് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തും അതിനാൽ നമ്മൾ ഇത് നിർണ്ണയിക്കുമ്പോൾ ഇവിടെ ഈ മൈനസ് ഈ രണ്ടും ചേർക്കും ഇത് കുറയ്ക്കപ്പെടും നമ്മൾക്ക് യഥാർത്ഥത്തിൽ 0 മാട്രിക്സ് ലഭിക്കുന്നു അതാണ് കേലി ഹാമിൽട്ടൺ സിദ്ധാന്തവും പറയുന്നത് അതായത് ഓരോ സ്ക്വയർ മാട്രിക്സും അതിന്റെ ക്യാരക്ടർസ്റ്റിക്സ് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നുവെന്ന് അതിനാൽ നമ്മൾ ഇപ്പോൾ ഈ യെ A ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചു തുടർന്ന് 0 ന് പകരം ഈ വലതുവശത്ത് 0 മാട്രിക്സ് ലഭിച്ചുവെന്ന് നമ്മൾ കണ്ടു അതാണ് കെയ്ലി ഹാമിൽട്ടൺ സിദ്ധാന്തം ഈ കെയ്ലി ഹാമിൽട്ടൺ സിദ്ധാന്തത്തിന്റെ മറ്റൊരു ഉപയോഗം നമുക്ക് ഈ ഉദാഹരണത്തിൽ നിന്ന് വേഗത്തിൽ നോക്കാവുന്നതാണ് തെളിയിക്കാൻ നമുക്ക് ഈ കെയ്ലി ഹാമിൽട്ടൺ സിദ്ധാന്തം ഉപയോഗിക്കാം ഈ A ഉപയോഗിച്ച് നമ്മൾ ആരംഭിച്ച വളരെ ലളിതമായ ഉദാഹരണം അതിന്റെ ക്യാരക്ടർസ്റ്റിക്സ് സമവാക്യം നമ്മൾ എഴുതുകയാണെങ്കിൽ വീണ്ടും ഡയഗണലിൽ നിന്ന് കുറയ്ക്കപ്പെടും നമുക്ക് ഈ ഡിറ്റർമിനന്റ് ലളിതമാക്കാം അതിനാൽ നമ്മൾക്ക് ഇത് ലഭിക്കും കെയ്ലി ഹാമിൽട്ടൺ സിദ്ധാന്തം അനുസരിച്ച് ഇത് നമുക്കറിയാം അതിനാൽ കെയ്ലി ഹാമിൽട്ടൺ സിദ്ധാന്തം ഉപയോഗിച്ച് ഈ ന്റെ മൂല്യം അതാണ് നമ്മൾ ഇവിടെ എന്താണ് ചെയ്തതെന്ന് കൺക്ലൂഡ് ചെയ്യുന്നു നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നത് നമ്മൾ ഐഗൺ വാല്യൂകളും ഐഗൺവെക്ടറും അവതരിപ്പിച്ചു അടിസ്ഥാനപരമായി ഈ സമവാക്യം വളരെ പ്രധാനമാണ് ഈ Ax λx ഇതിലെ ലാംഡയാണ് ഐഗൺവാല്യൂ x എന്നത് അനുബന്ധ ഐഗൺവെക്റ്റർ നൽകും കൂടാതെ ഓരോ സ്ക്വയർ മാട്രിക്സും അതിന്റേതായ ക്യാരക്ടർസ്റ്റിക്സ് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നുവെന്ന് പറയുന്ന ഈ കെയ്ലി ഹാമിൽട്ടൺ സിദ്ധാന്തവും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ വലതുവശത്ത് ഇത് 0 മാട്രിക്സ് ആണ് എല്ലാ എൻട്രികളും 0 ഉള്ള A യുടെ അതേ ഓർഡറിൽ ഉള്ള മാട്രിക്സ് ആണത് ലെക്ച്ചർകൾ തയ്യാറാക്കുന്നതിനായി ഉപയോഗിക്കുന്ന റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി